പ്രിയ പങ്കാളികളേ സ്വാഗതം ഇന്നത്തെ മൊഡ്യൂളിൽ നോൺ വെർബൽ പരമ്പരാഗതമായി സമയത്തെ ഒരു അമൂർത്തമായ ആശയമായി കണക്കാക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഭാഷാപരമായി നമ്മൾ ഈ ആശയത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ഇത് വ്യത്യസ്ത ഭാഷകളിലും ശൈലികളിലും പ്രതിനിധീകരിക്കുന്നു ഉദാഹരണത്തിന് ക്വാളിറ്റി ടൈം എന്നിരുന്നാലും ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങളിലെ പഠനങ്ങൾ അവരുടെ കാഴ്ചപ്പാട് വിശാലമാക്കാൻ തുടങ്ങിയപ്പോൾ സംഘടനാ പെരുമാറ്റം ബിസിനസ്സ് ആശയവിനിമയം നരവംശശാസ്ത്രം എന്നീ മേഖലകളിൽ ആളുകൾ പ്രത്യേക സന്ദർഭങ്ങളിൽ സമയത്തിന്റെ അളവുകൾ പഠിക്കാൻ തുടങ്ങി സമയത്തെക്കുറിച്ചുള്ള പഠനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ആശയവിനിമയം വ്യത്യസ്ത സംസ്കാരങ്ങളിലെ ആളുകൾ വ്യത്യസ്ത തൊഴിൽ സംസ്കാരങ്ങളിലെ ആളുകൾ മറ്റുള്ളവരുമായുള്ള അവരുടെ ഇടപെടൽ സംഭാഷണങ്ങൾ മറ്റുള്ളവരുമായുള്ള ബന്ധം എന്നിവയിൽ സമയം എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന ഘടനകളെ ആശ്രയിച്ചിരിക്കുന്നു ആശയവിനിമയരംഗത്ത് ആളുകൾ എങ്ങനെയാണ് വ്യത്യസ്ത രീതികളിൽ പ്രതികരിക്കുന്നതെന്നും അതുവഴി അവർ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന നോൺ വെർബൽ സന്ദേശങ്ങൾ എങ്ങനെ ആശയവിനിമയം നടത്തുന്നുവെന്നും പഠിക്കുന്നു സമയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ മൂല്യങ്ങൾ നമ്മുടെ മനോഭാവത്തിലും നോൺ വെർബൽ ആശയവിനിമയത്തിന്റെ മറ്റ് വശങ്ങളിലും പ്രതിഫലിക്കുന്നു നമ്മൾ എങ്ങനെ നമ്മുടെ സമയം ചെലവഴിക്കുന്നു എങ്ങനെ പാഴാക്കുന്നു കാര്യങ്ങൾ എങ്ങനെ നീട്ടിവെക്കുന്നു സമയം പരമാവധി പ്രയോജനപ്പെടുത്താൻ നമുക്ക് എങ്ങനെ കഴിയും എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇവ മനസ്സിലാക്കാം സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തോട് പ്രതികരിക്കുന്നതിലും വിലയിരുത്തുന്നതിലും വ്യക്തിഗത വ്യതിയാനങ്ങൾ തീർച്ചയായും ഉണ്ട് അതേസമയം എൻവിസിയുടെ ഈ വശത്തിൻറെ സാംസ്കാരിക സ്വാധീനവും വിലപ്പെട്ടതാണ് മനുഷ്യരെന്ന നിലയിൽ നമുക്ക് സങ്കീർണ്ണമായ ഒരു താൽക്കാലിക ഐഡന്റിറ്റി ഉണ്ട് അത് വ്യക്തിഗത സാമൂഹിക സാംസ്കാരിക പ്രൊഫഷണൽ എന്നീ വ്യത്യസ്ത തലങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു എല്ലാത്തരം വെർബൽ സന്ദേശങ്ങൾക്കും നോൺ വെർബൽ സന്ദേശങ്ങൾക്കും അവരുടേതായ താൽക്കാലികതയുണ്ട് അവയ്ക്ക് ആരംഭത്തിന്റെ ഒരു പോയിന്റും അവസാനിക്കുന്ന ഒരു പോയിന്റും ഉണ്ട് അതിനുമുമ്പ് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അതിനുശേഷം മറ്റെന്തെങ്കിലും സംഭവിക്കുന്നു അതിനാൽ നമ്മുടെ ആശയവിനിമയം സമയത്തിന്റെ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ ആശയവിനിമയത്തിന്റെ നോൺ വെർബൽ വശങ്ങളുടെ വലിയ പ്രതിഭാസങ്ങളുടെ പശ്ചാത്തലത്തിലോ സന്ദർഭത്തിന് പുറത്തല്ല കാലത്തിനനുസരിച്ച് വ്യക്തിപരമായും സാമൂഹികമായും സാംസ്കാരികമായും ഉള്ള വൈകാരിക ധാരണകളും അർത്ഥങ്ങളുമായുള്ള നമ്മുടെ പ്രൊഫഷണൽ ഇടപെടലുകൾ പഠിക്കുന്നതിനുള്ള കൂടുതൽ ചലനാത്മകമായ മാർഗം ആണ് ക്രോണമിക്സ് നിർദ്ദേശിക്കുന്നത് കാലക്രമത്തിൽ ഇന്റർ ഡിസിപ്ലിനറി സാഹിത്യത്തിൽ നിന്ന് കാലാനുസൃതമായ പഠനങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ ജീവശാസ്ത്രം സാമൂഹ്യശാസ്ത്രം മനശാസ്ത്രം നരവംശശാസ്ത്രം എന്നീ വൈവിധ്യമാർന്ന മേഖലകളിലെ ഗവേഷകർ അവരെ പിന്തുണച്ചിട്ടുണ്ട് ആളുകൾ എല്ലായ്പ്പോഴും വ്യത്യസ്ത രീതികളിൽ സമയ പഠനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാൽ നമ്മൾ ക്രോണമിക്സ് എന്ന പദം ഉപയോഗിക്കാൻ തുടങ്ങുന്നതിനുമുമ്പ് അല്ലെങ്കിൽ ബിസിനസ്സ് പ്രൊഫഷണൽ ആശയവിനിമയ മേഖലകളിൽ ഈ ധാരണകൾ പ്രയോഗിക്കുന്നതിന് മുമ്പുതന്നെ അവരുടെ സംഭാവന അംഗീകരിക്കുന്നതിന് മുമ്പുതന്നെ നിരവധി പണ്ഡിതന്മാർ ഈ ആശയത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് ഇവരെക്കുറിച്ച് പഠിക്കേണ്ടതും ആവശ്യമാണ് ആധുനിക വീക്ഷണകോണിൽ നിന്ന് ഈ ആശയം ആദ്യം വികസിപ്പിച്ചെടുത്തത് ഇ ആർ ക്ലേ ഉപയോഗത്തിനായി അംഗീകരിച്ചു ജോർജ്ജ് ഹെർബർട്ട് മീഡും എന്ന് വിളിച്ചു ഈ ഘട്ടത്തിൽ നാം അംഗീകരിക്കേണ്ട മറ്റൊരു തത്ത്വചിന്തകനാണ് പ്രശസ്ത കനേഡിയൻ കമ്മ്യൂണിക്കോളജിസ്റ്റ് ആശയങ്ങൾ കൂടുതൽ സമ്പന്നമാക്കി അദ്ദേഹത്തിന്റെ കൃതികളിൽ ആഗോള ഗ്രാമം എന്ന പദം പരിചയപ്പെടുത്തിയതിന് മക്ലൂഹാനെ നമുക്ക് അറിയാം പക്ഷേ സമയ സങ്കൽപ്പത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു 1952 ൽ ഹരോൾഡ് ഇന്നീസ് ഇടയ്ക്കിടെ എഴുതി അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മറ്റ് ഗവേഷകരെ സമാനമായ പഠനങ്ങൾ നടത്താൻ പ്രേരിപ്പിച്ചു കനേഡിയൻ കുറിച്ചുള്ള സാംസ്കാരിക പഠനത്തിലാണ് അദ്ദേഹം ഈ ആശയം അവതരിപ്പിച്ചത് ആശയവിനിമയത്തിലെ ക്രോണിമിക്സുമായി പ്രാധാന്യമർഹിക്കുന്ന വശങ്ങളുടെ ഉദാഹരണങ്ങളായി സാധാരണ സാമൂഹിക സന്ദർശനങ്ങളുടെ ദൈർഘ്യത്തിലെ ക്രോസ് കൾച്ചറൽ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നു ടോം ബ്രൂണോ 1974 ൽ സമയത്തെയും നോൺ വെർബൽ ആശയവിനിമയത്തെയും കുറിച്ചുള്ള ആദ്യ ലേഖനം വികസിപ്പിച്ചെടുത്തു കൂടാതെ അദ്ദേഹം ക്രോണമിക്സ്നെ നിർവചിക്കാനും 1977 ൽ അതിന്റെ സവിശേഷതകൾ വിശദീകരിക്കാനും ശ്രമിച്ചു അതിനാൽ 1970കളിലെ ഈ ദശകത്തിലാണ് ക്രോണമിക്സ്ൻറെ സ്വാധീനത്തെക്കുറിച്ച് പരമാവധി മനസ്സിലാക്കുന്നത് വിവിധ ഗവേഷണ പണ്ഡിതന്മാർ പ്രൊഫഷണൽ ആശയവിനിമയ രംഗത്ത് ക്രോണമിക്സ്ൻറെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങൾ ഈ ആദ്യകാല കൃതികളിൽ വിശദീകരിച്ചിട്ടുണ്ട് എഡ്വേർഡ് ടി ഹാളിന്റെ എന്നിങ്ങനെ നാമകരണം ചെയ്തു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സമയം സൂക്ഷിക്കുന്നതിനുള്ള കൃത്യതയുമായി ബന്ധപ്പെട്ട സമയത്തിന്റെ ശാസ്ത്രീയ അളവാണ് ടെക്നിക്കൽ യുഎസ്എയുടെ ഉദാഹരണം ഉദ്ധരിച്ച് അമേരിക്കൻ സമൂഹത്തെ ക്ലോക്കും കലണ്ടറും എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് 1 മണി ആയിരിക്കുമ്പോൾ ഇത് സാധാരണയായി ജോലി ചെയ്യേണ്ട സമയമാണെന്നും രാവിലെ 1 മണി ആകുമ്പോൾ സാധാരണയായി ഉറങ്ങേണ്ട സമയമാണെന്നും ചിന്തിക്കാൻ ആളുകൾ സോഷ്യലി കണ്ടീഷൻഡ് ആണ് അതേ സമയം നമ്മുടെ സമകാലിക സംസ്കാരങ്ങളിൽ നമ്മുടെ സമയ ക്രമീകരണം നിശ്ചിതവും രീതിശാസ്ത്രപരവുമാണെന്ന് നമ്മൾ കാണുന്നു അതിനാൽ ഭൂരിഭാഗം ആളുകളും ജോലിസ്ഥലത്തും അവരുടെ വ്യക്തിഗത ജീവിതത്തിലും സമാനമായ മാതൃകകൾ പിന്തുടരുന്നുവെന്ന് പറയാം ഇൻഫോർമൽ സമയം സാധാരണയായി വ്യക്തിഗത തലത്തിലുള്ള സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യമാണ് ഹാൾ ഇതിൽ മൂന്ന് വ്യത്യസ്ത ആശയങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവ ദൈർഘ്യം സമയനിഷ്ഠ പ്രവർത്തനം എന്നിവയാണ് ഒരു പ്രത്യേക ഇവന്റിന് ഔദ്യോഗികമായി അനുവദിച്ച സമയവുമായി കാലാവധി ബന്ധപ്പെട്ടിരിക്കുന്നു ഉദാഹരണത്തിന് ഒരു മീറ്റിംഗിൽ ഒരു പ്രത്യേക അജണ്ട ഇനത്തിനായി 40 മിനിറ്റ് അനുവദിച്ചിരിക്കാം അതേ സമയം ചിലപ്പോൾ ചില സംസ്കാരങ്ങളിൽ നമ്മുടെ എസ്റ്റിമേറ്റുകൾ സാധാരണ കൃത്യതയില്ലാത്തവയാണ് അതേസമയം ചില സംസ്കാരങ്ങളിൽ ഈ എസ്റ്റിമേറ്റുകൾ കഴിയുന്നത്ര കൃത്യതയോട് അടുത്ത് ആയിരിക്കണമെന്ന് നമ്മൾ പിന്നീട് മനസ്സിലാകും അതേസമയം വ്യക്തിപരമായ നിർവചനങ്ങളും ഉണ്ട് ഉദാഹരണത്തിന് ഞാൻ 2 മിനിറ്റിനുള്ളിൽ അവിടെയെത്തുമെന്ന് ഞാൻ പറഞ്ഞാൽ ഈ 2 മിനിറ്റുകളിൽ ഞാൻ കൃത്യമായി അർത്ഥമാക്കുന്നത് 1 മണിക്കൂർ അല്ലെങ്കിൽ കൃത്യമായി 2 മിനിറ്റ് അല്ലെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വരെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരാൻ എടുത്തേക്കാം എന്നതാണു ഇൻഫോർമൽ സമയവുമായി ബന്ധപ്പെട്ട മറ്റൊരു വശം സമയനിഷ്ഠയാണ് ഇത് അടിസ്ഥാനപരമായി സമയം സൂക്ഷിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പ്രോംപ്റ്റൻസാണ് നിശ്ചിത സമയത്ത് നിശ്ചിത സ്ഥലത്ത് എത്തുമ്പോൾ നമ്മൾ സാധാരണയായി സമയനിഷ്ഠ ഉള്ളവരായി കണക്കാക്കപ്പെടുന്നു ചില ആളുകൾ ക്ഷീണിച്ചവരും പതിവായി വൈകി വരുന്നവരുമാണ് അതേസമയം സാംസ്കാരിക കാരണങ്ങളും ഇതിനുണ്ട് ഉദാഹരണത്തിന് ചില സംസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠത കൃത്യമായി ഒരു മൂല്യമല്ല കാരണം വൈകി വരുന്നത് പലപ്പോഴും നമ്മുടെ നിലയും അധികാരത്തെക്കുറിച്ചുള്ള ധാരണകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രവർത്തനം മറ്റൊരു ക്രോണമിക്സ് മൂല്യമാണ് നമ്മുടെ സമയത്തിൻറെ ഉപയോഗവും മാനേജ്മെന്റും ഒരു സാംസ്കാരിക രീതിയിലാണ് നിർവചിച്ചിരിക്കുന്നത് നമ്മുടെ സമയ സങ്കൽപ്പവുമായി ബന്ധപ്പെട്ടിരിക്കാവുന്ന മറ്റ് വശങ്ങൾ കാത്തിരിക്കാനുള്ള നമ്മുടെ സന്നദ്ധത നമ്മുടെ ഇടപെടലുകളിൽ സമയം നിലനിർത്തുന്ന രീതി സമയത്തിന്റെ ഉപയോഗം സമയനിഷ്ഠത എന്നിവ നമ്മുടെ നിലയുടെ പ്രതിഫലനവും അധികാര ഘടനയുടെ ഭാഗവുമാണ് നാം സമയം നോക്കുന്ന രീതി അതുമായി നമ്മുടെ ബന്ധം നിലനിർത്തുകയും അതിനെ വിലമതിക്കുന്ന രീതി ജീവിതശൈലിയെ ബാധിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ സ്വന്തം തൊഴിൽ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് അതുപോലെ തന്നെ വലിയ തോതിൽ ഇത് ഒരു ഓർഗനൈസേഷന്റെ തൊഴിൽ സംസ്കാരത്തിന്റെ പ്രതിഫലനമായി മാറുന്നു ഇത് നമ്മുടെ ആശയവിനിമയത്തെയും പ്രൊഫഷണൽ ബന്ധങ്ങളെയും ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുന്നു നമ്മുടെ സാമൂഹിക സമ്മർദ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം സമയം ഒരു ഗണിത സ്വഭാവം ഉള്ളതാണെന്ന് ഹാൾ ചൂണ്ടിക്കാട്ടി സമയം വിവേകപൂർവ്വം ഉപയോഗിക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു അതേ സമയം അതിനെക്കുറിച്ച് വളരെയധികം ശ്രദ്ധിക്കാതിരിക്കാനും നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു വ്യത്യസ്ത സംസ്കാരങ്ങൾ കാലത്തിന്റെ പ്രവർത്തനം മനസ്സിലാക്കുന്ന രീതി വ്യത്യസ്ത കോണുകളിൽ നിന്ന് മനസ്സിലാക്കാം ഹാൾ സമയത്തെ ഒരു ഭാഷയായി സംസ്കാരങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു ത്രെഡായി കണക്കാക്കുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഇത് ഒരു സംഘാടകനായി പ്രവർത്തിക്കുന്നു അതേ സമയം ഇത് ഒരു സന്ദേശ സംവിധാനമായും പ്രവർത്തിക്കുന്നു ആളുകൾ പരസ്പരം എങ്ങനെ പെരുമാറുന്നുവെന്നും അതേ സമയം ആളുകൾ വിലമതിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഇത് നമ്മോട് പറയുന്നു കാലത്തെക്കുറിച്ചുള്ള മനുഷ്യസങ്കൽപ്പത്തെ സംബന്ധിച്ചിടത്തോളം ഹാൾ ചരിത്രപരമായ ഒരു വീക്ഷണം ആണ് സ്വീകരിച്ചത് സ്വാഭാവിക താളങ്ങളോട് പ്രതികരിക്കാൻ നമ്മൾ പഠിക്കുന്ന രീതി സീസണിലെ മാറ്റങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്ന രീതി ദിവസങ്ങളിലെ മാറ്റങ്ങൾ വിവിധ വിളകളുടെ വാർഷിക ചക്രങ്ങൾ മുതലായവയിൽ നിന്നാണ് നമ്മുടെ സമയബോധം ഉടലെടുത്തതെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നു സമയത്തിന്റെ മറഞ്ഞിരിക്കുന്ന അളവുകൾ വളരെ സങ്കീർണ്ണമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും അടിസ്ഥാന സമയ സംവിധാനങ്ങളെ മോണോക്രോണിക് ഈ പാറ്റേണുകൾ എല്ലാ സംസ്കാരങ്ങളിലും കർശനമായി പ്രയോഗിക്കാൻ കഴിയില്ല തന്നിരിക്കുന്ന സംസ്കാരത്തിന് ഇവയിലേതെങ്കിലും മുൻഗണന നൽകാൻ സാധ്യതയുണ്ട് മാത്രമല്ല അതിലേക്ക് കൂടുതൽ ചായ്വുണ്ടാകുകയും ചെയ്യും എന്നിരുന്നാലും സാംസ്കാരികവും വംശീയവുമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം ഒരു പ്രത്യേക സംസ്കാരം സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക മുൻഗണനയിലേക്കോ ഓറിയന്റേഷനിലേക്കോ ചായ്വ് കാണിച്ചേക്കാം എന്നാൽ ആ സംസ്കാരത്തിനുള്ളിൽ ചില ചെറിയ ഗ്രൂപ്പുകൾ കണ്ടെത്തിയേക്കാം ഉദാഹരണത്തിന് വംശീയ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഉപസംസ്കാര ഗ്രൂപ്പുകൾ വ്യത്യസ്ത രീതിയിൽ തീർച്ചപ്പെടുത്തിയത് ഇവ കാലവുമായി വ്യത്യസ്തമായ ഒരു ബന്ധം നിലനിർത്തുന്നു പൊതുവേ വടക്കൻ യൂറോപ്യൻ സംസ്കാരങ്ങൾ പോളിക്രോണിക് ആണെന്നും ഹാൾ അഭിപ്രായപ്പെടുന്നു അതിനാൽ സമയത്തിന്റെ മോണോക്രോണിക് പോളിക്രോണിക് ഓറിയന്റേഷനുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എങ്ങനെ കാണും സമയത്തെക്കുറിച്ചുള്ള ഒരു മോണോക്രോണിക് ധാരണ രേഖീയമാണ് അത് ക്ലോക്കിനാൽ നിയന്ത്രിക്കപ്പെടുന്നു അതേസമയം ഒരു പോളിക്രോണിക് സംസ്കാരം രേഖീയമല്ലാത്ത ഒന്നാണ് അത് കൂടുതൽ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് സമയം നിലനിർത്തുക എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ബന്ധങ്ങളെ തിരഞ്ഞെടുക്കുന്നു മോണോക്രോണിക് സംസ്കാരത്തിന് ഒരു ഹ്രസ്വകാല ഓറിയന്റേഷൻ ഉണ്ട് എന്നാൽ ഒരു പോളിക്രോണിക് ഒരു ദീർഘകാല ഓറിയന്റേഷൻ ആണ് മോണോക്രോണിക് കൃത്യത ഇഷ്ടപ്പെടുന്നു പോളിക്രോണിക് സംസ്കാരങ്ങൾ സമയത്തിന് ഒരു പ്രത്യേക പ്രവാഹമുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഈ രണ്ട് ഓറിയന്റേഷനുകളും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം മക്കൂൾ മനോഹരമായി സംഗ്രഹിച്ചിരിക്കുന്നു മോണോക്രോണിക് സംസ്കാരങ്ങൾ പ്രാഥമികമായി ക്ലോക്ക് സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും പോളിക്രോണിക് സംസ്കാരങ്ങൾ സാധാരണയായി ആളുകളുടെ സമയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും അദ്ദേഹം പറയുന്നു ഇവയാണ് ഇത് രണ്ടും തമ്മിലുള്ള സുപ്രധാന വ്യത്യാസങ്ങൾ ആളുകളെന്ന നിലയിൽ നാം സമയത്തെ വിലമതിക്കുന്ന രീതിയിലേക്കുള്ള ഈ സാംസ്കാരിക ദിശാസൂചനകൾ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളിലും പ്രതിഫലിക്കുന്നു മോണോക്രോണിക് ഓറിയന്റേഷൻ ഉള്ള ഒരു സംസ്കാരം കാര്യങ്ങളുടെ രേഖീയ ക്രമം അനുമാനിക്കുന്നു ഒപ്പം കാര്യങ്ങൾ ഒരു തുടർച്ചയായ പാറ്റേണിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുന്നു ഒരു കാര്യം മറ്റൊന്നിനെ പിന്തുടരേണ്ടതുണ്ട് എ എല്ലായ്പ്പോഴും ബിക്ക് മുമ്പായിരിക്കണം ബി ടാസ്ക് ആരംഭിക്കുന്നതിന് മുമ്പ് എ അവസാനിക്കണം അതിനാൽ മോണോക്രോണിക് സംസ്കാരങ്ങൾ ഫോക്കസ് വർദ്ധിപ്പിക്കുകയും സമയം ലാഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന ഉപകരണങ്ങളെയും സിസ്റ്റങ്ങളെയും വിലമതിക്കുന്നു അവർ സമയത്തെ പണമായിട്ടാണ് കാണുന്നത് ഘടനാപരമായ മൂല്യമായിട്ടാണ് കാണുന്നത് അതിനാൽ ഈ മോണോക്രോണിക് സംസ്കാരങ്ങളിലെ വർക്ക് സംസ്കാരങ്ങളെ നിയന്ത്രിക്കുന്നത് നന്നായി ചിട്ടപ്പെടുത്തിയതും നിർവചിക്കപ്പെട്ടതുമായ ഷെഡ്യൂളുകളാണ് ഈ സംസ്കാരങ്ങളിലെ ശ്രദ്ധ എങ്ങനെയെങ്കിലും ആസൂത്രിതമായ ഇടപെടലുകളിൽ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയാണ് മാത്രമല്ല അവ എല്ലായ്പ്പോഴും സമയം പരമാവധി ലാഭിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഈ ഓറിയന്റേഷനുമായി ബന്ധപ്പെടുത്താൻ കഴിയുന്ന വാക്കേതര സൂചനകൾ ചില പ്രവണതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവ വ്യക്തിഗതവും സാംസ്കാരികവുമായ തലത്തിൽ കാണപ്പെടുന്നു ഉദാഹരണത്തിന് മുൻകൂട്ടി ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് പ്രവണത കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുക തുടങ്ങിയവ അതിനാൽ പകൽ സമയത്ത് ഒരു അവ്യക്തതയും ഉണ്ടാകില്ല ഒരു മൂല്യമെന്ന നിലയിൽ കൃത്യനിഷ്ഠതയുണ്ട് അതേ സമയം തന്നെ കാര്യങ്ങളെ അജണ്ടയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട് അതുവഴി കാര്യങ്ങൾ കൃത്യസമയത്ത് അവസാനിക്കും അതേസമയം ഒരേസമയം നിരവധി കാര്യങ്ങളിൽ ഏർപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഒപ്പം ഒരു സമയം ഒരു കാര്യം ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നു വടക്കൻ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളും സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ജർമ്മനി യുഎസ്എ ജപ്പാൻ എന്നിവയാണ് മോണോക്രോണിക് ഓറിയന്റേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ വടക്കൻ യൂറോപ്പിലെയും യുഎസ്എയിലെയും സംസ്കാരങ്ങളിലെ മോണോക്രോണിക് ധാരണകളും മുൻഗണനകളും സ്വാഭാവികമല്ലെന്നും പകരം അവ പഠിച്ചെടുത്ത സാമൂഹികവും സാംസ്കാരികവുമായ മൂല്യങ്ങൾ ആണെന്നും അതേസമയം അവ ഏകപക്ഷീയമാണെന്നും ഹാൾ ചൂണ്ടിക്കാട്ടി 1760 മുതൽ 1820 വരെ ചിലപ്പോൾ യൂറോപ്പിലും യുഎസ്എയിലും 1840 വരെ പരിഗണിക്കപെടുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ സംഭവിച്ച വ്യാവസായിക വിപ്ലവത്തിന്റെ ആദ്യ നാളുകളിലേക്ക് അദ്ദേഹം ഈ മനോഭാവത്തിന്റെ വികാസം കണ്ടെത്തിയിട്ടുണ്ട് ഫാക്ടറി ജീവിതത്തിന് ഒരു നിശ്ചിത സമയത്ത് അധ്വാനം റിപ്പോർട്ടുചെയ്യേണ്ടതുണ്ട് നിശ്ചിത സമയം എല്ലായ്പ്പോഴും വ്യത്യസ്ത തരം മണികളോ വിസിലുകളോ ഉപയോഗിച്ച് പ്രഖ്യാപിച്ചു വ്യാവസായിക വിപ്ലവം നിലനിർത്തുന്നതിനു ഈ കൃത്യനിഷ്ഠത അനിവാര്യമായിരുന്നു ക്രമേണ ഈ മനോഭാവങ്ങൾ ഈ സംസ്കാരങ്ങളിലേക്ക് കടന്നുവന്നു അതിനാൽ മോണോക്രോണിക് സംസ്കാരങ്ങൾ ഷെഡ്യൂളുകൾ ചുമതലകൾ സമയപരിധി അനുസരിച്ച് കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് ഒരു പ്രധാന മൂല്യം നൽകുന്നു അതിനാൽ ഹാൾ അമേരിക്കൻ ബിസിനസ്സ് ലോകത്ത് ഷെഡ്യൂൾ പവിത്രമാണെന്നും സമയം വ്യക്തമാണെന്നും ചൂണ്ടിക്കാണിക്കുന്നു മോണോക്രോണിക് മനോഭാവത്തോടുള്ള നമ്മുടെ മുൻഗണന ഒരു സമയം ഒരു കാര്യം മാത്രം ഏറ്റെടുക്കാൻ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നു ഇത് നിയന്ത്രിക്കുന്ന ആളുകൾ ജോലിക്കിടയിൽ തടസ്സപ്പെടാൻ ഇഷ്ടപ്പെടുന്നില്ല കൂടാതെ മുൻകൂട്ടി തീരുമാനിച്ച ഷെഡ്യൂളിംഗ് പെട്ടെന്ന് മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല തന്റെ അഭിപ്രായത്തിൽ സമയബന്ധിതമായ മോണോക്രോണിക് റഫറൻസുമായി ബന്ധപ്പെട്ട ചില തടസ്സങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഹാളിന് കഴിഞ്ഞു സമയത്തെക്കുറിച്ചുള്ള ഈ ധാരണ ആളുകളെ പരസ്പരം അടുക്കാൻ അനുവദിക്കുന്നില്ലെന്നും അതിന്റെ ഫലമായി ചില ബന്ധങ്ങൾ ശക്തമാക്കുന്നുവെന്നും എന്നാൽ മറ്റു ചിലത് അവഗണിക്കപ്പെടുന്നു എന്നും അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നത് ഈ സമയം മുൻഗണന ചില ആളുകൾക്ക് പ്രവേശിക്കാൻ അനുവാദമുള്ള ഒരു മുറി പോലെയാണ് മറ്റുള്ളവരെ അതിൽ നിന്നും അകറ്റി നിർത്തുന്നു സമാനമായ മൂല്യവ്യവസ്ഥയിലേക്ക് സബ്സ്ക്രൈബു ചെയ്യാത്ത ആളുകൾ സമയത്തിന്റെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി കാര്യക്ഷമമല്ലാത്തതും വിശ്വസനീയമല്ലാത്തതും അതേ സമയം അവർ അനാദരവുള്ളവരുമാണെന്ന് കരുതാൻ ആളുകളെ കണ്ടീഷൻ ചെയ്യുന്നു പാശ്ചാത്യ സംസ്കാരങ്ങളിൽ ഭൂരിഭാഗവും കാലത്തെക്കുറിച്ചുള്ള ഏകീകൃത ധാരണയിൽ ആധിപത്യം പുലർത്തുന്നുണ്ടെങ്കിലും മനുഷ്യർ പരിണമിച്ച രീതിയുടെ സ്വാഭാവിക കേന്ദ്രീകരണമല്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ മുൻഗണന മനുഷ്യരാശിയുടെ സ്വതസിദ്ധമായ പല താളങ്ങളെയും ലംഘിക്കുന്നതായി തോന്നുന്നു സമയത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു ധാരണയാണ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നതെന്ന് ഇതിനർത്ഥമില്ല ഇത് അദ്ദേഹത്തിന്റെ വിശകലനത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് അതേ രീതിയിൽ തന്നെ അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനു വിപരീതമായി പോളിക്രോണിക് ഓറിയന്റേഷൻ ഒരു നിശ്ചിത ഫ്ലക്സിനെയും നോൺ ലീനിയറിറ്റിയെയും പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും ഈ സംസ്കാരങ്ങൾ കാലത്തോടുള്ള കാഠിന്യത്തെ വിലമതിക്കുന്നതിനേക്കാൾ കൂടുതൽ ബന്ധത്തെയും പ്രവചനങ്ങളെയും വിലമതിക്കുന്നു ഷെഡ്യൂൾ യാന്ത്രികമായി നിലനിർത്തുന്നതിനുപകരം ആദ്യം സ്വാഭാവിക അജണ്ട പൂർത്തിയാക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു ഉദാഹരണത്തിന് ഈ സംസ്കാരമുള്ള രണ്ടുപേർ വളരെക്കാലം കഴിഞ്ഞ് തെരുവ് കോണിൽ കണ്ടുമുട്ടുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ആദ്യം മനസ്സിലാക്കാൻ അവർ താൽപ്പര്യപ്പെടുന്നു 10 മണിക്ക് മീറ്റിംഗിലേക്ക് ഓടുന്നതിനുപകരം മീറ്റിങ്ങിനു പോകാനുള്ള ഈ താമസം മനസ്സിലാക്കാവുന്നതേയുള്ളൂ അത്തരം സംസ്കാരങ്ങളിലെ നമ്മുടെ തൊഴിൽ അന്തരീക്ഷത്തിലേക്ക് കടന്നുവരുന്ന അനൌപചാരിക സൂചകങ്ങൾ മീറ്റിംഗുകളിൽ കൃത്യനിഷ്ഠയില്ലാത്തവരായി പ്രതിഫലിക്കുന്നു കൃത്യനിഷ്ഠത എന്നത് ഒരു നെഗറ്റീവ് വർക്ക് സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കണമെന്നില്ല മറിച്ച് ആളുകൾ വൈകിയാൽ അത് ഒരു പ്രത്യേക സഹാനുഭൂതിയായി മനസ്സിലാക്കേണ്ടതുണ്ട് ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിന് മീറ്റിംഗുകൾ ഉപയോഗിക്കുന്നു അജണ്ട പൂർത്തിയാക്കുന്നതിനുള്ള ശ്രദ്ധ സാധാരണഗതിയിൽ അവിടെ ഇല്ല ഈ സംസ്കാരങ്ങളിൽ മൾട്ടിടാസ്കിംഗ് ഒരു മൂല്യമായി കണക്കാക്കപ്പെടുന്നു അതിനാൽ ഒരു നിശ്ചിത വഴക്കം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ മിക്ക ആഫ്രിക്കൻ അറബി രാജ്യങ്ങളിലും ദക്ഷിണേഷ്യയിലെ ചില രാജ്യങ്ങളിലും ചില സെഗ്മെന്റുകളിലും സമയത്തിലേക്കുള്ള ഒരു പോളിക്രോണിക് ഓറിയന്റേഷൻ പിന്തുടരുന്നതായി നമുക്ക് കാണാം സമൂഹത്തിലെ അടിസ്ഥാനപരമായി ഗ്രാമീണവും കാർഷികവുമായ വിഭാഗങ്ങളിലും ഇത് പിന്തുടരുന്നു കാരണം അവർ വിളയുടെയും ഉൽപാദനത്തിന്റെയും വലിയ ചക്രങ്ങൾ പിന്തുടരുന്നു അതേസമയം മത കലണ്ടറുകൾ കർശനമായി പിന്തുടരുന്ന സമൂഹങ്ങളും സാധാരണയായി ഈ ദിശാബോധം പിന്തുടരുന്നു സമയത്തെക്കുറിച്ച് ഒരു പോളിക്രോണിക് ധാരണ നിലനിൽക്കുന്ന ആ സംസ്കാരങ്ങളിൽ ഒന്നിലധികം സമയരേഖകൾ പതിവായി പിന്തുടരുന്നു ആളുകൾക്ക് സമയപരിധി പാലിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനുവദിച്ച മണിക്കൂറിനുള്ളിൽ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ അവർ താൽപ്പര്യപ്പെടുന്നതിനാലാണിത് ഒരു മോണോക്രോണിക് വീക്ഷണകോണിൽ നിന്ന് ഈ മനോഭാവത്തെ കാണാനുള്ള പ്രവണത അവരെ അടിസ്ഥാനപരമായി ക്രമരഹിതരായി കാണുന്നു മോണോക്രോണിക് സംസ്കാരങ്ങളെ പ്രാഥമികമായി ക്ലോക്ക് കൾച്ചർ എന്നും വിളിക്കുന്നു കാരണം അവ സമയം അളക്കുന്നു സമയത്തിന് ഒരു സത്ത ഉണ്ടെന്ന് കരുതുന്നു പരിശീലിക്കുന്ന സമയനിഷ്ഠയും ഈ സംസ്കാരങ്ങളിൽ മുൻഗണന നൽകുന്ന കൃത്യതയും വിവിധ ദിനചര്യകളിലും പ്രതിഫലിക്കുന്നു ഉദാഹരണത്തിന് പൊതുഗതാഗതത്തെ സംബന്ധിച്ചിടത്തോളം സമയം നിലനിർത്തുന്നത് ഈ സാംസ്കാരിക മുൻഗണന കാരണം പ്രതിഫലിക്കുന്നു ബിസിനസ്സ് ലോകത്തിന്റെ പശ്ചാത്തലത്തിൽ മോണോക്രോണിക് വീക്ഷണകോണിന് വളരെയധികം പ്രാധാന്യം നൽകുന്നത് ഒരു മൾട്ടി കൾച്ചറൽ ക്രമീകരണത്തിൽ ചിലപ്പോൾ വിപരീതഫലം ഉണ്ടാക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം വിശ്വസ്തരായ ഉപഭോക്തൃ അടിത്തറ വികസിപ്പിക്കാൻ ചിലപ്പോൾ വർഷങ്ങളെടുക്കുമെന്ന ആശയം അത്തരം ആളുകൾക്ക് മനസ്സിലാകില്ല കൃത്യനിഷ്ഠതയോടും സമയവുമായി ബന്ധപ്പെട്ട മറ്റ് മൂല്യങ്ങളോടും സംസ്കാരങ്ങൾ പ്രതികരിക്കുന്ന വ്യത്യസ്ത രീതികൾ ഈ വീഡിയോയിൽ നന്നായി കാണിച്ചിട്ടുണ്ട് സമയം സ്ഥിരമാണെന്ന് നാമെല്ലാവരും വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ഊഹിക്കുന്നു എന്നാൽ ലോകമെമ്പാടും അതിന്റെ മനോഭാവത്തിൽ വലിയ വ്യത്യാസമുണ്ട് അതേസമയം നിങ്ങൾക്ക് സ്വിസ് സമയത്തിനനുസരിച്ച് നിങ്ങളുടെ വാച്ച് സജ്ജമാക്കാൻ കഴിയും എല്ലാ സംസ്കാരങ്ങളും ദിവസം മിനിറ്റും സെക്കൻഡുമായി വിഭജിക്കുന്നില്ല ചില സംസ്കാരങ്ങളിൽ കൃത്യനിഷ്ഠത എന്നത് വളരെ വ്യത്യസ്ത കാര്യം ആണ് നിരവധി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവർ ഒരു ദിവസം രണ്ട് മീറ്റിംഗുകൾ ഷെഡ്യൂൾ ചെയ്യുന്നു അവർക്ക് ഇത് വളരെ എളുപ്പമാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൂടിക്കാഴ്ച ഒരു ദിവസം വരെ നടന്നില്ല പിന്നീട് യാത്ര അവസാനിക്കുമ്പോൾ അദ്ദേഹം ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു അതിനാൽ ക്ഷീണിച്ചിരുന്നു അയാൾക്ക് പ്രവർത്തിക്കാൻ പ്രയാസമായിരുന്നു തന്റെ ആതിഥേയർ തന്നെപ്പോലെ സമയം നോക്കുമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു ആഫ്രിക്കയിലെ പോലെ പശ്ചിമേഷ്യയിലോ തെക്കേ അമേരിക്കയിലോ അവർ സമയ ബ്ലോക്കുകളിൽ പ്രവർത്തിക്കുന്നു അര ദിവസം ഒരുപക്ഷേ തീർച്ചയായും മിനിറ്റുകളിൽ അല്ല ആ സമയ ബ്ലോക്കിൽ അവർക്ക് ആവശ്യമുള്ളത് നേടാൻ കഴിയുന്നിടത്തോളം കാലം പ്രാധാന്യം കുറവായിരിക്കുമ്പോൾ അവ കാര്യക്ഷമതയോ ഫലപ്രദമോ ആണെന്ന് പറയുന്നില്ല അവരുടെ സ്വന്തം വേഗതയിൽ പ്രവർത്തിക്കുന്നു നിങ്ങൾ നിമിഷങ്ങൾക്കകം പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടേണ്ടതുണ്ട് അല്ലാത്തപക്ഷം നിങ്ങളുടെ ആതിഥേയനിൽ നിന്നുള്ള ധാരാളം പ്രതിരോധത്തിനായി നിങ്ങൾ സ്വയം സജ്ജമാകേണ്ടതുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിരന്തരമായ നിരാശ ലഭിക്കും പിന്നെ സാംസ്കാരിക അപാകതകൾ ഉണ്ട് ഫ്രഞ്ച് സമൂഹത്തിൽ കൃത്യമായ കൃത്യനിഷ്ഠത ഏറ്റവും ഉയർന്ന മുൻഗണനയല്ല പക്ഷേ നിങ്ങൾ ഒരു ഫ്രഞ്ച് റെസ്റ്റോറന്റിൽ വൈകി എത്തിയാൽ ഊഷ്മളമായ സ്വീകരണം പ്രതീക്ഷിക്കരുത് ഫ്രഞ്ചുകാർ അവരുടെ ഭക്ഷണം വളരെ ഗൌരവമായി എടുക്കുകയും വൈകി വരുന്നത് അവരുടെ പാചക ശ്രമങ്ങളോടുള്ള അനാദരവിന്റെ അടയാളമായി കണക്കാക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് അവരുടെ ബഹുമാനം തിരികെ ലഭിക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ വെയിറ്റർമാർക്ക് ചില നല്ല അഭിനന്ദനങ്ങൾ നൽകേണ്ടതുണ്ട് അമേരിക്കൻ പദപ്രയോഗം സമയം പണമാണ് യുഎസിൽ വളരെ അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പറ്റും ഒരു ചാറ്റി ബാങ്ക് ടെല്ലർ അതിന്റെ മുന്നിലെ ലൈനുകൾ സാവധാനം നീങ്ങുന്നത് ഉപഭോക്താക്കളെ അക്ഷമരാക്കും അവർ കാത്തിരിക്കേണ്ടി വന്നാൽ വഴക്കു കേട്ടെന്നും ഇരിക്കും കാരണം നിങ്ങൾ ഫോമുകൾ മുൻകൂട്ടി പൂരിപ്പിച്ചു കാണില്ല ഇതിനകം ചർച്ച ചെയ്ത മോണോക്രോണിക് പോളിക്രോണിക് ഓറിയന്റേഷനുകളുടെ ചില പ്രവണതകൾ സമയനിഷ്ഠയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മോണോക്രോണിക് ഓറിയന്റേഷനുകൾ സമയനിഷ്ഠയെ ഇഷ്ടപ്പെടുന്നു പവിത്രമായി കണക്കാക്കുന്നു അതിനാൽ 10 മണിക്ക് മീറ്റിംഗ് എന്നതിനർത്ഥം ചർച്ചകൾ 10 മണിക്ക് ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് മറുവശത്ത് പോളിക്രോണിക് സംസ്കാരങ്ങൾ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ളതാണ് അവർക്ക് 10 മണിക്ക് മീറ്റിംഗ് എന്നതിനർത്ഥം 10 മണിക്ക് ആളുകൾ അവിടെ ഒത്തുകൂടി പരസ്പരം അഭിവാദ്യം ചെയ്യാൻ തുടങ്ങും എന്നാണ് പോളിക്രോണിക് ഓറിയന്റേഷനിൽ പ്രധാനമായും ആളുകളുടെ താളത്തിനു മുന്നിൽ കൃത്യനിഷ്ഠത പദ്ധതികളും ഡെലിവറി ബില്ലുകളും പൂർത്തിയാക്കുന്നതിനുള്ള കർശനമായ പാലനത്തെ അവഗണിക്കുന്നു സമയം മനസ്സിലാക്കുന്നതിലെ സാംസ്കാരിക വ്യതിയാനങ്ങളും ഈ പ്രത്യേക വീഡിയോയിൽ ചർച്ചചെയ്യുന്നു ഓരോ സംസ്കാരത്തിനും സമയത്തെക്കുറിച്ച് അവരുടേതായ ധാരണയുണ്ട് ഓരോ സംസ്കാരത്തിനും സൌഹൃദത്തെക്കുറിച്ച് സമയത്തെക്കുറിച്ച് ഒരു പ്രത്യേക ധാരണയുണ്ട് ചില രാജ്യങ്ങളിൽ അറബി ജനതയെപ്പോലെ കുടുംബങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിക്കുന്നതിന് ആളുകൾ അവരുടെ ജീവിതം സമർപ്പിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രധാനമായും ജാപ്പനീസിനെപോലെ തങ്ങളുടെ കരിയറിനായി ജീവിതം സമർപ്പിക്കുന്നു എനിക്ക് തിരക്കുകൂട്ടണം അമേരിക്കൻ പറയുന്നു എന്റെ സമയം കഴിഞ്ഞു അറബ് പറയുന്നു ഷെഡ്യൂളുകളോട് വിധേയത്വ മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ അവർ ഈ നിന്ദ്യമായ പ്രയോഗം ഉപയോഗിക്കൂ പടിഞ്ഞാറൻ യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങൾ സമയത്തെ ഒരു രേഖീയ ദർശനമായി കാണുന്നു സമയത്തിന് ഒരു തുടക്കവും അവസാനവുമുണ്ട് മറ്റ് സംസ്കാരങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ സംസ്കാരം അതിവേഗത്തിലാണ് പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ ബിസിനസ്സിന്റെ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർ അത് അന്തിമമായി കാണും ഒരു കരാറിലൂടെ വരുമ്പോൾ അവർ പുനർവിചിന്തനം നടത്താറില്ല അല്ലെങ്കിൽ അവർ അവർക്ക് കഴിയുന്ന സമയത്ത് പരമാവധി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു സമയത്തെക്കുറിച്ചുള്ള ധാരണയിൽ അറബി രാജ്യങ്ങൾക്ക് വഴക്കമുള്ള കാഴ്ചപ്പാടുണ്ട് ഒരു കൂടിക്കാഴ്ചയിലേക്ക് നയിക്കപ്പെടുകയോ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ദീർഘകാലത്തേക്ക് പരിശോധിക്കുകയോ ചെയ്യുന്നത് മിക്ക അറബി രാജ്യങ്ങളുടെയും സ്വീകാര്യമായ മാനദണ്ഡമാണ് വഴക്കമുള്ള സമയ സംസ്കാരങ്ങൾക്കായി മനുഷ്യന്റെ വികാരങ്ങളേക്കാൾ ഷെഡ്യൂളുകൾക്ക് പ്രാധാന്യം കുറവാണ് ശ്രദ്ധ ആകർഷിക്കാൻ ആളുകൾ ആശയവിനിമയം നടത്തുമ്പോൾ സമയം ആത്മനിഷ്ഠമായി മാറുന്നു സമയം കുറച്ച് ഉപയോഗിക്കാനോ വലിച്ചുനീട്ടാനോ കഴിയും അനിയന്ത്രിതമായ ഷെഡ്യൂളിനായി മീറ്റിംഗുകൾ തിരക്കുകൂട്ടുകയോ ചുരുക്കുകയോ ചെയ്യില്ല സമയം ക്ലോക്ക് നിയന്ത്രിക്കാത്ത ഒരു ഓപ്പൺ എൻഡ് റിസോഴ്സ് ആശയവിനിമയമാണ് ഏഷ്യയിൽ ആളുകൾ സമയത്തെക്കുറിച്ചുള്ള ധാരണയെ ഒരു ചാക്രിക ദർശനമായിട്ടാണ് കാണുന്നത് ഷിൻ സംസ്കാരം ഈ ആശയത്തെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു ജീവിത പ്രക്രിയ അവസാനിക്കുമ്പോൾ അവർ ജനനത്തിൽ നിന്നും വീണ്ടും ആരംഭിക്കുന്നു ഇതാണ് ഏഷ്യൻ രാജ്യങ്ങളുടെ ശൈലി ഏഷ്യൻ രാജ്യങ്ങൾ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങളെ അപേക്ഷിച്ച് മന്ദഗതിയിലാണ് ഉദാഹരണത്തിന് ചൈനീസ് ആളുകൾ ഒരു കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഉദാഹരണത്തിന് ഒരു ബിസിനസ്സ് ഇടപാട് അവർ എല്ലായ്പ്പോഴും നേരത്തെ എത്തിച്ചേരും അതിനാൽ അവർ നിങ്ങളുടെ സമയം പാഴാക്കില്ല കരിയറിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഏഷ്യൻ ആളുകൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവർ പിന്നീട് ആ തീരുമാനത്തെ വിലയിരുത്തി വേണ്ടി വന്നാൽ അത് നിരസിക്കുന്നു അല്ലെങ്കിൽ അതിനനുസരിച്ച് അവർ ക്രമീകരിക്കും ഉദാഹരണത്തിന് യൂറോപ്യൻ ബിസിനസുകാർ ഒരു കരാർ ഉണ്ടാക്കാനോ ചൈനീസ് ബിസിനസുകാരുമായി കരാർ ഒപ്പിടാനോ ആഗ്രഹിക്കുമ്പോൾ അവർ കരാർ വേഗത്തിലാക്കുമെന്നും ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു അതേസമയം ചൈനീസ് ബിസിനസുകാർ എല്ലായ്പ്പോഴും ഒരു ദീർഘകാല പരിഹാരം തേടുകയും എല്ലാം നിരവധി തവണ ചെയ്യുകയും ചെയ്യും അവർ വേഗത്തിൽ കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ പാശ്ചാത്യ സംസ്കാരങ്ങൾ അത് സമയം പാഴാക്കുന്നതായി കാണും നമ്മുടെ സാംസ്കാരിക മുൻഗണനകൾ സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ സംബന്ധിച്ചിടത്തോളം മറ്റ് ആളുകളുമായുള്ള നമ്മുടെ ബന്ധത്തിൽ മാത്രമല്ല സാങ്കേതികവിദ്യയുമായുള്ള നമ്മുടെ ബന്ധത്തിലും പ്രതിഫലിക്കുന്നു ആഗോള വെബ്സൈറ്റുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന രീതിയാണ് ഇതിന്റെ വ്യക്തമായ ഉദാഹരണം മോണോക്രോണിക് ഉപയോക്താക്കൾ വേഗത്തിലും നിർണ്ണായകമായും സാധാരണയായി ചുമതലയുള്ളവരാണെന്നും അവർ വെബ്സൈറ്റുകൾ അതേ രീതിയിൽ രൂപകൽപ്പന ചെയ്യുന്നുവെന്നും കാണാം മറുവശത്ത് പോളിക്രോണിക് ഉപയോക്താക്കൾ ഫലങ്ങളെക്കാൾ പ്രക്രിയയ്ക്ക് പ്രാധാന്യം നൽകുകയും പ്രായോഗിക നടപ്പാക്കലിനെക്കുറിച്ച് ഉയർന്ന തലത്തിലുള്ള ധാരണ നേടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു വ്യത്യസ്ത സംസ്കാരങ്ങൾ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്ന രീതിയിൽ ഈ വ്യത്യാസം എളുപ്പത്തിൽ കാണാം വ്യത്യസ്ത സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ആളുകളുമായി പ്രവർത്തിക്കേണ്ടി വന്നേക്കാവുന്ന നമ്മുടെ വർക്ക് സംസ്കാരങ്ങളുടെ അതിവേഗം മാറുന്ന വേഗതയിൽ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ സമയം എങ്ങനെ വ്യത്യസ്തമായി കാണപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള നമ്മുടെ അവബോധം അനിവാര്യമായിത്തീർന്നിരിക്കുന്നു ഒരു അന്തർദ്ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് സമയത്തിൻറെ വ്യത്യസ്ത നിർവ്വചനങ്ങൾ എന്താണെന്നും ആളുകൾ അവരുമായി എങ്ങനെ വ്യത്യസ്തമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അറിഞ്ഞിരിക്കണം ലാറ്റിനമേരിക്കൻ രാജ്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു രസകരമായ പദം ആണ് മനന മിഡിൽ ഈസ്റ്റിൽ ബുക്ര എന്നതിന്റെ പര്യായപദം ആണ് ഇത് ഈ പദം ഒരു പ്രത്യേക മനോഭാവത്തെ സൂചിപ്പിക്കുന്നു ഇതിനർത്ഥം 'ഇന്ന് ചെയ്യാൻ കഴിയാത്തത് നാളെ ചെയ്യപ്പെടും' എന്നാണ് അതിനാൽ സമയത്തിന്റെ കാര്യത്തിൽ ഈ പിന്നാക്ക മനോഭാവം നമ്മുടെ മൂല്യങ്ങളും മറ്റ് ആളുകളുമായുള്ള ബന്ധവും നോക്കുന്നതിനുള്ള ഒരു സാംസ്കാരിക വശമാണ് മോണോക്രോണിക് സംസ്കാരങ്ങളിൽ സമയം വിഭജിക്കപ്പെടുകയും തിരിച്ചറിയാവുന്ന യൂണിറ്റുകളായി വിഭജിക്കപ്പെടുകയും ചെയ്യുന്നു എന്നിരുന്നാലും പോളിക്രോണിക് സംസ്കാരങ്ങളിൽ സമയം എന്നത് ഭൂതകാലത്തിൻറെയും വർത്തമാനകാലത്തിൻറെയും ഭാവിയുടെയും ഒരു സന്തോഷിപ്പിക്കുന്ന മിശ്രിതമാണെന്നും ഈ വിഭാഗങ്ങളെ കർശനമായി വേർതിരിച്ചുട്ടില്ലെന്നും നമുക്ക് കാണാൻ കഴിയും അതിനാൽ നമ്മൾ ജോലിചെയ്യുന്ന ആളുകൾ ഔപചാരികവും ചുമതലയുള്ളതുമായ രീതിയിൽ സമയം നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ സമയം ചെലവഴിക്കുന്നതിനും പരസ്പര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനുമുള്ള അവസരമായി അവർ സമയത്തെ കാണുന്നുണ്ടോ എന്ന് നാം മനസ്സിലാക്കണം ചില സംസ്കാരങ്ങളിൽ സമയനിഷ്ഠയുടെ അഭാവം നമ്മുടെ സാമൂഹിക അന്തസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണാം ചില സമൂഹങ്ങളിലും ചില ഓർഗനൈസേഷനുകളിലും കീഴ് ഉദ്യോഗസ്ഥരെ നിയമനങ്ങൾക്കായി കാത്തിരിപ്പിക്കുന്നത് വളരെ സാധാരണമാണ് അതിലൂടെ അവർക്ക് അവരുടെ ഉന്നതരുടെ പ്രാധാന്യവും അല്ലെങ്കിൽ ഉയർന്ന പദവിയും ആന്തരികമാക്കാൻ കഴിയും വൈകി എത്തുന്നതിലൂടെ അധികാരവും അന്തസ്സും പലപ്പോഴും കാണിക്കുന്നു ചില രാജ്യങ്ങളിൽ ഇത് ഒരു തന്ത്രമായി ഉപയോഗിക്കുന്നു പ്രത്യേകിച്ചും നമുക്ക് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുടെ തൊഴിൽ സംസ്കാരത്തെ പരാമർശിക്കാം എന്നിരുന്നാലും മോണോക്രോണിക് സംസ്കാരങ്ങളിൽ സമയനിഷ്ഠയുടെ അഭാവം എല്ലായ്പ്പോഴും അഭിമുഖീകരിക്കുന്നതായി കാണാം വളരെ രസകരമായ ഒരു ഉദാഹരണം 2005 ൽ ഒരു കോടതിയിൽ മൈക്കൽ ജാക്സൺ വൈകി എത്തിയപ്പോൾ പ്രകോപിതനായ ജഡ്ജി ആണ് കൃത്യനിഷ്ഠതയെ മോണോക്രോണിക് സംസ്കാരങ്ങൾ ഒരു മൂല്യമായി കണക്കാക്കുന്നു മാത്രമല്ല ഇത് വിവിധ മേഖലകളിലെ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക നേതാക്കൾ എന്ന് കണക്കാക്കപ്പെടുന്ന ആളുകൾക്ക് പോലും ഇളവു നൽകുന്നില്ല ചില അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ മീറ്റിംഗ് സമയത്തിന് ശേഷം ഒരു രാജ്യത്തിന്റെ പേരും ചേർക്കുന്നുവെന്നും ഒരു രാജ്യത്തിന്റെ പേര് ഉൾപ്പെടുത്തുന്നത് സൂചിപ്പിക്കുന്നത് ഒരു പ്രത്യേക രാജ്യം എങ്ങനെ സമയവുമായി ബന്ധപ്പെടുത്തുന്നുവെന്നതു മനസിലാക്കേണ്ടതുണ്ട് എന്നതാണ് സമയത്തിനനുസരിച്ച് ഒരു രാജ്യത്തിന്റെ പേര് ഉൾപ്പെടുത്തുന്നത് വിവിധ സാംസ്കാരിക പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പങ്കാളികൾക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം സമയത്തിൽ മാറ്റം വരാമോ എന്നതിനെ മനസിലാക്കാൻ അനുവദിക്കുന്നു മാർട്ടിൻ ചാനെ എന്നിവരിൽ നിന്ന് ഞാൻ ഈ ഉദാഹരണം എടുക്കുന്നു അവർ "മലേഷ്യൻ സമയം" രാവിലെ 9 മണിക്ക് മീറ്റിംഗ് പ്രഖ്യാപിക്കുന്ന ഒരു ക്ഷണത്തിന്റെ ഉദാഹരണം പറയുന്നു സമയനിഷ്ഠ ഒരു ദൃഢമല്ലാത്ത രീതിയിൽ പ്രയോഗിക്കുമെന്നതിന്റെ സൂചനയാണ് ഇപ്പോൾ മലേഷ്യൻ സമയം മോണോക്രോണിക് സംസ്കാരങ്ങളിൽ ജോലി സമയവും വ്യക്തിഗത സമയവും കർശനമായി വേർതിരിച്ചിരിക്കുന്നു എന്നിരുന്നാലും പോളിക്രോണിക് സംസ്കാരങ്ങളിൽ ജോലി സമയവും വ്യക്തിഗത സമയവും കർശനമായി വേർതിരിക്കപ്പെട്ടിട്ടില്ലെന്ന് കാണാം അവ പലപ്പോഴും പരസ്പരം ഉൾപ്പെടുന്നു ഈ സാംസ്കാരിക വശങ്ങൾ വിവിധ സംഘടനകളിലേക്ക് കൂടുതൽ വ്യാപിക്കുന്നു അത് അവരുടെ തൊഴിൽ സംസ്കാരത്തിൽ പ്രതിഫലിക്കുന്നു ഉദാഹരണത്തിന് കമ്പനി ജോലികൾക്ക് ഒരു ജോലി ദിവസത്തിൽ എത്ര സമയം നൽകുന്നു സാമൂഹികവൽക്കരിക്കുന്നതിന് എത്ര സമയം നൽകുന്നു മോണോക്രോണിക് സംസ്കാരങ്ങളിൽ വിഭജനം സാധാരണഗതിയിൽ 80 ശതമാനം ജോലിയും 20 ശതമാനം സാമൂഹികവുമാണ് മറുവശത്ത് പോളിക്രോണിക് രാജ്യങ്ങളിൽ ഇത് മനോഹരമായിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിനാൽ സമയത്തിന്റെ ഉചിതമായ അർത്ഥങ്ങൾ മനസിലാക്കുന്നത് അന്താരാഷ്ട്ര സാഹചര്യങ്ങളിൽ പ്രധാനമാണ് കാരണം ബിസിനസ്സിന്റെ ആഗോളവൽക്കരണം ലോകമെമ്പാടുമുള്ള സമയ സങ്കല്പത്തെ എങ്ങനെ വീക്ഷിക്കുന്നു എന്നതിനെ സ്വാധീനിക്കുന്നു പ്രത്യേകിച്ചും വ്യക്തിയുടെ തലത്തിലും ഓർഗനൈസേഷന്റെ തലത്തിലും അതിനാൽ രാജ്യത്തേക്കാൾ കൂടുതൽ കാലാകാലങ്ങളിൽ സാംസ്കാരിക കൂട്ടായ്മകളെ പ്രതിഫലിപ്പിക്കുന്നത് സംഘടനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം വിവിധ രാജ്യങ്ങളിൽ സ്ഥിതിചെയ്യുന്ന ഒരേ കമ്പനിയുടെ ഓഫീസുകളിലെ വർക്ക് സംസ്കാരങ്ങൾ വ്യത്യസ്ത രീതികൾ പിന്തുടരുമെന്നത് ശ്രദ്ധേയമാണ് മോണോക്രോണിക് മനോഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാജ്യത്ത് സ്ഥിതിചെയ്യുന്ന ഒരു ഹെഡ് ഓഫീസ് പ്രവർത്തിക്കുന്നത് പോളിക്രോണിക് മനോഭാവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മറ്റൊരു ഓഫീസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യത്യസ്തമായിരിക്കും ഈ വ്യത്യാസങ്ങൾ കാലത്തെ വ്യത്യസ്ത രീതികളിൽ മനസ്സിലാക്കുന്ന രീതിയിലേക്കും നമ്മുടെ സാമൂഹിക സാംസ്കാരിക പാരാമീറ്ററുകൾ എത്രത്തോളം പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകുന്നു അതേസമയം സമയവുമായുള്ള നമ്മുടെ ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത വീക്ഷണകോണുകളിലേക്ക് അനുഭാവപൂർവ്വം സ്വയം പൊരുത്തപ്പെടേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറയുന്നു മോണോക്രോണിക് പോളിക്രോണിക് വ്യക്തികൾ തമ്മിലുള്ള മനോഭാവത്തിലെ വ്യത്യാസങ്ങൾ ഈ വീഡിയോയുടെ സഹായത്തോടെ കൂടുതൽ മനസിലാക്കാൻ കഴിയും ഇവിടെ ജിമ്മി ഉണ്ട് സ്ഥാപിത ഷെഡ്യൂളുകൾ പിന്തുടരാൻ അവൻ ഇഷ്ടപ്പെടുന്നു അവയെ മോണോക്രോമിക് എന്ന് വിളിക്കുന്നു മോണോക്രോണിക് ആളുകൾ പദ്ധതികളും സമയപരിധികളും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു അവരുടെ സമയം വിലപ്പെട്ടതാണ് ഒരു സമയം ഒരു ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും സമയപരിധി പാലിക്കാൻ കഠിനമായി പരിശ്രമിക്കാനും അവർ ഇഷ്ടപ്പെടുന്നു മാത്രമല്ല തടസ്സങ്ങളെ അവർ വിലമതിക്കുന്നില്ല പാശ്ചാത്യ സമൂഹത്തിൽ സാധാരണയായി പിന്തുടരുന്ന ഒരു സംസ്കാരമാണ് ഈ സാഹചര്യത്തിൽ ബോബ് ഉണ്ട് ബോബ് പോളിക്രോണിക് ആണ് പോളിക്രോണിക് ആളുകൾ ഇടയ്ക്കിടെ വൈകും എളുപ്പത്തിൽ ശ്രദ്ധ തിരിക്കുകയും ഒരേസമയം നിരവധി കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു ബോബിനെ സംബന്ധിച്ചിടത്തോളം അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾ വേഗത്തിൽ മാറ്റുന്നതും സമയപരിധി പാലിക്കാത്തതും സാധാരണമാണ് ലാറ്റിനമേരിക്കൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഈ സ്വഭാവം സാധാരണമാണ് മോണോക്രോണിക് പോളിക്രോണിക് ആളുകൾ ഗ്രൂപ്പുകളായി ഇടപഴകുമ്പോൾ ഫലങ്ങൾ നിരാശാജനകമാകാം പോളിഫോണിക് ആളുകൾ സമയപരിധികളെയും ഷെഡ്യൂളുകളെയും അനാദരവ് കാണിക്കുന്നതിലൂടെ മോണോക്രോമിക് ആളുകൾക്ക് വിഷമമുണ്ടാകാം സുഗമമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന് സമയ സെൻസിറ്റീവ് ജോലികളുടെ ഉത്തരവാദിത്തം മോണോക്രോണിക് അംഗങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് അതേസമയം പോളിക്രോണിക് അംഗങ്ങളെ സ്വീകരിക്കുന്നത് ഒരു സാഹചര്യത്തിന്റെ സ്വഭാവത്തെയും പ്രാധാന്യത്തെയും അടിസ്ഥാനമാക്കി വ്യത്യാസപ്പെടും ഈ വീഡിയോ വളരെ ഉചിതമായി സൂചിപ്പിക്കുന്നത് പോലെ സമയം അളക്കുന്ന ഉപകരണം മാത്രമല്ല ഇത് മനുഷ്യന്റെ പെരുമാറ്റത്തെയും സൂചിപ്പിക്കുന്നു ഇത് നമ്മുടെ സാംസ്കാരിക മുൻഗണനകളെയും സൂചിപ്പിക്കുന്നു ഇത് ബന്ധങ്ങളോടുള്ള നമ്മുടെ മനോഭാവത്തെയും സൂചിപ്പിക്കുന്നു ബിസിനസ്സും മറ്റ് പ്രൊഫഷണൽ പ്രവർത്തനങ്ങളും സമയത്തിനുള്ളിൽ ആസൂത്രണം ചെയ്യപ്പെടുന്നു നമ്മുടെ മുൻഗണനകളെക്കുറിച്ചുള്ള വൈവിധ്യമാർന്ന ധാരണകളും ആശയക്കുഴപ്പത്തിന് കാരണമാകും ഒരു അമേരിക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം സമയം യഥാർത്ഥത്തിൽ പണമാണ് അതിനാൽ ഇത് എല്ലായ്പ്പോഴും വിലപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നു കാരണം ഈ സമൂഹം അടിസ്ഥാനപരമായി ലാഭാധിഷ്ഠിത സമൂഹമാണ് ജർമ്മനിയും സ്വിസ്സും അവരുടെ ക്രമം കൃത്യത ആസൂത്രണം എന്നിവ സമയവുമായി ബന്ധിപ്പിക്കുന്നു മറ്റ് ചില സംസ്കാരങ്ങളിൽ ഉദാഹരണത്തിന് സ്പാനിഷ് സംസ്കാരത്തിലും ഇറ്റാലിയൻ അറബി സംസ്കാരങ്ങളിലും സമയത്തിന്റെ പരിഗണനകൾ സാധാരണയായി മനുഷ്യ വികാരങ്ങൾക്ക് വിധേയമാണ് കൃത്യനിഷ്ഠതയെ സംബന്ധിച്ചിടത്തോളം ഫ്രഞ്ചുകാരുടെ ധാരണയും ഒരു പോളിക്രോണിക് മനോഭാവത്തോട് അടുക്കുന്നു സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം നമ്മുടെ നോൺ വെർബൽ ആശയവിനിമയം മികച്ച രീതിയിൽ സംഘടിപ്പിക്കാനും നമ്മുടെ സംഭാഷണങ്ങളും സംസാരവും മറ്റുള്ളവർക്ക് സഹാനുഭൂതിയോടെ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ മോഡുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു